കഴിഞ്ഞ വീഡിയോ ക്ലാസുകളിൽ നമ്മൾ ഡിസി സർക്യൂട്ടുകൾ പഠിച്ചു ഇപ്പോൾ നമ്മൾ എസി സർക്യൂട്ടുകൾ ആരംഭിക്കും ആദ്യം നമ്മൾ സിംഗിൾ ഫേസ് എസി സർക്യൂട്ട് പഠിക്കും തുടർന്ന് റെസൊണൻസ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിനും പോകും തുടർന്ന് നമ്മൾ ത്രീ ഫേസ് എസി സർക്യൂട്ടുകൾ പഠിക്കും അതിനുശേഷം നമ്മൾ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമർ പരിഗണിക്കും ആമുഖത്തിൽ എല്ലാം ചർച്ച ചെയ്യപ്പെടും ഇത് ഒന്നാം വർഷ തലത്തിലായിരിക്കും തുടർന്ന് 3 ഫേസ് ഇൻഡക്ഷൻ മെഷീൻ ചർച്ച ചെയ്യും സമാനമായ ചില സർക്യൂട്ടുകളും കുറച്ച് ഉദാഹരണങ്ങളും ഉണ്ട് അതിനു ശേഷം ഡിസി മെഷീൻ പ്രധാനമായും ഡിസി മോട്ടോർ അതിനാൽ ആദ്യം നമ്മൾ സിംഗിൾ ഫേസ് എസി സർക്യൂട്ട് ആരംഭിക്കും അതിനാൽ ഒരു സിംഗിൾ ഫേസ് എസി സർക്യൂട്ട് ആരംഭിക്കുന്നതിന് മുമ്പ് ഇഎംഎഫ് എങ്ങനെയാണ് ഉത്പാദിപ്പിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്ക് രണ്ട് മാഗ്നെറ്റിക് പോൾ ഉണ്ടെന്ന് കരുതുക ഇത് N പോൾ ഇത് എസ് പോൾ ഒരു കോയിലും ഉണ്ട് ഇത് കോയിലിന്റെ ഒരു വശം ഇത് കോയിലിന്റെ മറുവശം ഇത് A വശം ഇത് സൈഡ് B ഈ കോയിൽ കറങ്ങുന്നുണ്ട് അത് എതിർ ഘടികാരദിശയിൽ കറങ്ങുന്നു ഇപ്പോൾ ഡയഗ്രാമിൽ ഇത് യഥാർത്ഥത്തിൽ ഹോറോസോണ്ടൽ സ്ഥാനത്താണ് ഫ്ലക്സ് താഴേക്ക് പോകുന്നു N മുതൽ S പോൾ വരെ അപ്പോൾ അത് ഒരൊറ്റ ടേൺ ആണെന്ന് കരുതുക അതിലൂടെ ഒരു റെസിസ്റ്റർ ബന്ധിപ്പിച്ചിരിക്കുന്നു അങ്ങനെ വോൾട്ടേജ് ഉണ്ടാവുകയും കറന്റ് ഒഴുകുകയും ചെയ്യും എന്നാൽ ഈ തലത്തിൽ നമ്മൾക്ക് താൽപ്പര്യമില്ല EMF എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതിനാൽ ഇത് ഒരു ഹൊറിസോണ്ടൽ സ്ഥാനത്തായിരിക്കുമ്പോൾ കോയിലിന്റെ ഈ 2 വശങ്ങളും ഫ്ലക്സ് മേഖലയ്ക്ക് പുറത്തായിരിക്കും കാരണം ഇത് അടിസ്ഥാനപരമായി N നും S നും ഇടയിലാണ് ഇത് ഒരു കോൺസ്റ്റന്റ് മാഗ്നെറ്റിക് ഫീൽഡ് ആണ് എന്നാൽ ഈ കോയിൽ കറങ്ങുമ്പോൾ അത് മുറിക്കുകയാണ് ഫ്ലക്സ് അതിനാൽ ഈ സാഹചര്യത്തിൽ ഈ 2 വശങ്ങളും നമ്മുടെ റഫറൻസ് സ്ഥാനങ്ങളാണ് അതിനാൽ ഹൊറിസോണ്ടൽ സ്ഥാനത്ത് ആയിരിക്കുമ്പോൾ ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാകില്ല അതായത് നിങ്ങൾ ഈ ഡയഗ്രാമിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ വശം എ ഈ വശം ബി അതിനാൽ ഇത് ഈ രീതിയിൽ കറങ്ങുമ്പോൾ ഇത് കാണിക്കുന്നു കോയിൽ θ ആംഗിൾ നീങ്ങി എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ വശം എ ഈ വശം ബി ഹൊറിസോണ്ടൽ സ്ഥാനത്ത് ആയിരിക്കുമ്പോൾ എ ഇവിടെയും ബി ഇവിടെയും ഈ ഫ്ലക്സ് എൻ ഭാഗത്തുനിന്നും വരും അതിനാൽ ഇത് ഒരു ഹൊറിസോണ്ടൽ സ്ഥാനത്ത് ആയിരിക്കുമ്പോൾ ഈ 2 വശങ്ങളിൽ കുറഞ്ഞ ഫ്ലക്സ് ഉണ്ടാകും അല്ലെങ്കിൽ അത് ഫ്ലക്സ് ചോർത്തുകയില്ല അതിനർത്ഥം ഈ സ്ഥാനത്ത് ഇഎംഎഫ് ഇൻഡസ് ചെയ്തതത് 0 ആയിരിക്കും ഇപ്പോൾ അത് ആന്റിക്ലോക്ക്വൈസ് ദിശയിൽ കറങ്ങുകയും ഒരു ആംഗിൾ θ ഉണ്ടാക്കുകയും ചെയ്യുന്നു അതിനാൽ അതിന്റെ അംഗുലര് സ്പീഡ് ω പറയുകയാണെങ്കിൽ θ ω t ഞാൻ അത് മായ്ക്കട്ടെ ഇവിടെ ഈ കോയിലിന്റെ വീതി B യും കോയിലിന്റെ നീളം L ആകയാൽ റെക്ടങ്ങളെന്റെ ഏരിയ LB ആണ് ഇത് സെന്റിമീറ്ററാണെങ്കിൽ സ്ക്വരെ സെന്റിമീറ്റർ മീറ്ററാണെങ്കിൽ സ്ക്വരെ മീറ്റർ ഇപ്പോൾ ഞാൻ അത് മായ്ക്കട്ടെ ഇപ്പൊ ഒരു ആംഗിൾ θ ൽ ഇത് സെന്റര് ആണ് അതിനാൽ അത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഡയമീറ്റർ ബി ഉള്ള ഒരു വൃത്തം ഉണ്ടാക്കുന്നു അത് വീതിയാണ് അതിനാൽ ഏത് പോയിന്റ് എ ലും ചില ടാജിന്റില് വെലോസിറ്റി അവിടെ ഉണ്ടാകും ഇവിടെ ഈ പോയിന്റ് എ ആണ് ഇത് എൽ ആണ് ഇത് വെർട്ടിക്കൽ കോംപിനേൻറ് എൻ നോർത്ത് പോൾ അല്ല ഇവിടെ ഇത് ഒരു വലിയ അക്ഷരമാണ് എൻ ഇത് M ആണ് ഇത് സെന്റര് O ആണ് ഇതാണ് ആംഗിൾ θ അപ്പോൾ ഈ കോണും θ ആണ് അത് 90 ഡിഗ്രിയാണ് ഈ പോയിന്റ് എ ആണ് കോയിൽ 90 ഡിഗ്രി കറങ്ങുമ്പോൾ പോയിന്റ് എ ഇവിടെ വരും ബി പോയിന്റ് ഇവിടെ വരും ആ സമയത്ത് ഇത് ഒരൊറ്റ ടേൺ ആയതിനാൽ എല്ലാ ഫ്ലക്സുകളും ഇതിലേക്ക് ബന്ധിപ്പിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തും അതായത് ജനറേറ്റുചെയ്ത വോൾട്ടേജ് പരമാവധി ആയിരിക്കും അതിനാൽ വീണ്ടും അത് നീങ്ങുന്നു എ ഇതിലേക്ക് വരും ബി ഇതിലേക്ക് വരും വീണ്ടും അത് ഹൊറിസോണ്ടൽ സ്ഥാനമായിരിക്കും ആ സമയത്ത് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് 0 ആണ് അതിനാൽ ഇത് ഒരു സൈക്ലിക് പ്രോസസ്സ് ആണ് അതിനാൽ നിങ്ങൾ സിനുസോയ്ഡൽ അല്ലെങ്കിൽ കറന്റ് വേവ് നേരിട്ട് നൽകിയാൽ വികാരങ്ങൾ അല്പം വ്യത്യസ്തമായിരിക്കും കാരണം നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ ഞാൻ ആദ്യം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് ആരംഭിച്ചു അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ ലൂപ്പിന്റെ ഒരു വശത്ത് സൃഷ്ടിക്കപ്പെട്ട EMFBLVsinθ ആണ് ഇത് നിങ്ങളുടെ ഹയർ സെക്കണ്ടറി ഫിസിക്സിൽ നിന്നാണ് അങ്ങനെ കോയിൽ ഒരു കോൺസ്റ്റന്റ് മാഗ്നെറ്റിക് ഫീൽഡ് കറങ്ങുമ്പോൾ ലൂപ്പിന്റെ ഒരു വശത്ത് ജനറേറ്റുചെയ്യുന്ന EMFBLVsinθ ആയിരിക്കും ഇവിടെ ബി എന്നത് ഒരു ടെസ്ലയിലോ വെബർ പേര് മീറ്റർ സ്ക്വരെ ഉള്ള ഫ്ലക്സ് ഡെന്സിറ്റി എൽ എന്നത് കോയിലിന്റെ നീളമാണ് ടാജിന്റില് വെലോസിറ്റി B ω t ഇതാണ് sin θ ഇതാണ് Blvsinθ വോൾട്ട്സ് ഈ വശം കോയിലിന്റെ ഒരു വശമാണ് ഇത് കോയിലിന്റെ മറ്റൊരു വശമാണ് അതിനാൽ മൊത്തത്തിൽ രണ്ട് വശങ്ങളുണ്ട് 2Blvsinθ വോൾട്ട് ആയിരിക്കും EMF ജനറേറ്റ് ചെയ്യുന്നത് അതിനാൽ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ V എന്നത് കണ്ടക്ടറുടെ ടാജിന്റില് വെലോസിറ്റിയാണ് അതിനാൽ ഇത് B 2 ആയിരിക്കും അതിനർത്ഥം റേഡിയോസ് എന്നാണ് B എന്നത് അടിസ്ഥാനപരമായി അത് കറങ്ങുമ്പോൾ അതിന്റെ വ്യാസം ആണ് അതിനാൽ ബി ആണ് വ്യാസം അതിനാൽ അടിസ്ഥാനപരമായി b2 ആണ് റേഡിയോസ് അതിനാൽ ωb 2 π n r r b2 അതിനാൽ അത് πbn മീറ്റർസെക്കന്റിന്msec തുല്യമാണ് ടാജിന്റില് വെലോസിറ്റിയാണ് n റിവൊല്യൂഷൻസെക്കന്റ്revolutionsec ആർപിഎസ് വേഗത നൽകുന്നു B എന്നത് മീറ്ററിലെ ലൂപ്പിന്റെ വീതിയും L എന്നത് മീറ്ററിലെ ലൂപ്പിന്റെ ഒരു വശത്തിന്റെ നീളവും B എന്നത് ടെസ്ല അല്ലെങ്കിൽ വെബർമീറ്റർ സ്ക്വയറിലെwebermeter square ഫ്ലക്സ് ഡെൻസിറ്റിയുമാണ് മീറ്റർ സ്ക്വയറിലെ ലൂപ്പിന്റെ വിസ്തീർണ്ണമാണ് എ അതിനാൽ ഇത് ഹയർ സെക്കൻഡറി ഫിസിക്സിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ അത് മായ്ക്കട്ടെ ഇപ്പോൾ അതിനാൽ ലൂപ്പിൽ ജനറേറ്റ് ചെയ്യുന്ന ഇഎംഎഫ് e 2 π B A n sin θ ആയിരിക്കും അതിനാൽ ഈ ഈക്വാഷൻ നിങ്ങൾ എന്തുചെയ്യും നിങ്ങൾക്കറിയാം Bl v sin θ ഈ ഈക്വാഷൻ V πbn ഇടുക ഇവയെല്ലാം ഈ ഈക്വാഷൻ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് 2 Blπ B n sinθ ആണ് അതിനാൽ LBA ഈ ഈക്വാഷൻ ഇടുക അപ്പോൾ അത് 2 π B a n sin θ വോൾട്ടായി മാറും അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ അതിനാൽ ഈ സാഹചര്യത്തിൽ ഇത് നിങ്ങളുടെ 2 π B A N sin θ വോൾട്ടുകളാണ് ഇപ്പോൾ ലൂപ്പ് ഒരു കോയിൽ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുകയാണെങ്കിൽ അതിനാൽ നിങ്ങൾക്ക് n ടേൺ ഉണ്ടാവും അപ്പോൾ മൊത്തം EMF ജനറേറ്റ് ചെയ്യുന്നത് 2 π B A നിങ്ങൾ ഈ പദം N കൊണ്ട് ഗുണിക്കുക ഇത് മൊത്തം ടേണുകളുടെ എണ്ണമാണ് അതിനാൽ ഇത് 2 π B A N n sin θ വോൾട്ട് ആയിരിക്കും അതിനാൽ ഇഎംഎഫിന്റെ പരമാവധി മൂല്യം Em 2 π B A n N ആണ് ഇത് പരമാവധി EMF ജനറേറ്റ് ചെയ്യുന്നു അതിനാൽ കോയിലിൽ ജനറേറ്റുചെയ്യുന്ന EMF ന്റെ ഇൻസ്റ്റന്റന്റ്സ് മൂല്യം e Emsin θ 2 π B A N n sin θ വോൾട്ട് ആയിരിക്കും ഇപ്പോൾ θ എന്നത് ടൈം ടി സെക്കന്റിലെ അംഗുലര് ഡിസ്പ്ലേസ്മെന്റ് ആണ് അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ അതിനാൽ ഈ സാഹചര്യത്തിൽ കോയിൽ നീങ്ങുമ്പോൾ θ കറങ്ങുന്നു അതിനാൽ θ ω t 2 π n t കാരണം അത് കറങ്ങുന്നുണ്ട് അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ അതിനർത്ഥം നിങ്ങൾ ഇത് ഇട്ടാൽ θ ω t 2 π n t ആണ് റേഡിയൻസെക്കന്റിലെradiansec അംഗുലര് വെലോസിറ്റി ഈ സമവാക്യത്തിൽ e എന്നത് Emsinωt എന്ന് എഴുതാം കാരണം θ ക്ക് തുല്യമാണ് ω t നമ്മൾ θ ക്ക് പകരമായി ω t മാറ്റിസ്ഥാപിക്കുന്നു അതിനാൽ e Em sin ω t അതിനാൽ ഇത് സിനസൊഇടല് വോൾട്ടേജിന്റെ എസ്സ്പ്രെഷൻ ആണ് ജനറേറ്റുചെയ്ത വോൾട്ടേജിന്റെ പരമാവധി മൂല്യമാണ് Em അതിനാൽ ഇതാണ് സൈനസോയ്ഡൽ ഇഎംഎഫ് ആദ്യം നമ്മൾ ആദ്യം മുതൽ മനസ്സിലാക്കണം അതുകൊണ്ടാണ് നമ്മൾ ഫാസറിലേക്കോ മറ്റേതിലേക്കോ പോകുന്നതിനുപകരം ആദ്യം മുതൽ ആരംഭിച്ചത് ആദ്യം നമ്മൾ ഇത് ചെയ്യേണ്ടതുണ്ട് കാരണം ഇവിടെ കോംപ്ലക്സ് നമ്പര് വീണ്ടും വീണ്ടും ഉൾപ്പെടും അതിനാൽ e Em sin ω t അതിനാൽ നിങ്ങൾ ഇത് 0 മുതൽ 2π വരെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് 1 സൈക്കിൾ പൂർത്തിയാക്കും കാരണം ഇത് തുടർച്ചയായി ഇങ്ങനെ പോകുന്നു θ ωt ന് തുല്യമാണ് അതിനാൽ ഇത് പരമാവധി മൂല്യമാണ് Em പ്ലോട്ടിന്റെ ഈ വശം യഥാർത്ഥത്തിൽ E ആണ് ഇത് സൈക്ലിംഗ് ആണ് അതിനാൽ ഈ വശം ഒരു Em ആണ് ഈ വശം ഒരു Em ആണ് ഇത് 0 ആണ് ഇത് π2 ആണ് ഇത് π ആണ് ഇത് 2 π ആണ് അതിനാൽ ഇത് θ ω t ആണ് ഇത് ഒരൊറ്റ ജോഡി പോളിന് ഉള്ളത് ആണ് അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ ഇപ്പോൾ ഒരു എസി ജനറേറ്ററിന് p ജോഡി പോളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു N പോളും S പോളും ഉള്ളപ്പോൾ അത് ഒരു ജോടി പോൾ ആണ് അതിനാൽ p 1 കാത്തിരിക്കൂ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇവിടെ N പോൾ ആണെന്ന് കരുതുക ഇത് എസ് പോൾ എൻ പോൾ എസ് പോൾ എന്നിങ്ങനെയാണ് ഇത് കറങ്ങുന്നത് അതിനാൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് p 2 ഉണ്ട് അതായത് രണ്ട് ജോഡി പോൾ അതിനാൽ ഇവിടെ അത് N S N S ആണ് അതിനാൽ നമുക്ക് p എന്നത് 2 ജോഡി പോളുകൾക്ക് തുല്യമാണ് അതിനാൽ ഇത് കൂടുതലാകാം അത് പ്രശ്നമല്ല അതിനാൽ നമ്മൾ ഇവിടെ നിരവധി പോളുകൾക്ക് പകരം ജോഡി പോളുകൾ ഉപയോഗിക്കും നമ്മൾ നിരവധി പോളുകൾ പറഞ്ഞാൽ ഈ സാഹചര്യത്തിൽ ഇത് തുല്യമാണ് 2 പോളുകളിലേക്ക് എന്നാൽ നമ്മൾ ജോഡി പോളുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് 1 ഉം 1 ഉം ഒരുമിച്ചാണ് അതിനാൽ 1 ജോഡി പോളുകളാണ് N S ഇവിടെ ഈ p 2 ന് തുല്യമാണ് കാരണം 2 ജോഡി പോളുകൾ അതിനാൽ ഒരു എസി ജനറേറ്ററിന് പി ജോഡി പോളുകളുണ്ടെങ്കിൽ ഫ്രേക്യുഎൻസി സൈക്കിൾസ്സെക്കന്റ്cyclessec എണ്ണത്തിന് തുല്യമാണ് ഇന്ത്യൻ സിസ്റ്റത്തിൽ ഞങ്ങളുടെ ആവൃത്തി 50 ഹെർട്സ് ആണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് 50 ഹെർട്സ് സാധാരണയായി ഇന്ത്യയിലെ മിക്ക രാജ്യങ്ങളിലും ഉപയോഗിക്കുന്നു യുഎസ്എയിലും കാനഡയിലും ഇത് 60 ഹെർട്സ് ആണ് ജപ്പാനിൽ ഇതിന് 60 ഹെർട്സും 50 ഹെർട്സും ഉണ്ടെന്ന് ഞാൻ കരുതുന്നു രണ്ടും അവിടെയുണ്ട് എന്നാൽ ഇന്ത്യ 50 ഹെർട്സ് ഉപയോഗിക്കുന്നു 50 ഹെർട്സ് എന്നാൽ അത് 50 സൈക്കിൾസ്സെക്കന്റ്cyclessec എന്നാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ f എന്നത് ഒരു സെക്കന്റിൽ 50 ഹെർട്സ് ആവൃത്തി എന്നതിന്റെ അർത്ഥം ഒരു സെക്കൻഡിൽ 50 സൈക്കിളുകൾ എന്നാണ് ഇവിടെ ഇത് 1 സൈക്കിൾ ആണ് അതിനാൽ ഇത് സൈനസോയ്ഡൽ വാവേഫോം ആണെങ്കിൽ അത് 1 സെക്കൻഡിൽ 50 സൈക്കിളുകൾ പൂർത്തിയാക്കും അപ്പോൾ 1 സൈക്കിൾ 150 സെക്കന്റ് ആയിരിക്കും അത് 0 02 സെക്കൻഡ് ആണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും അതിനാൽ ഇപ്പോൾ ചോദ്യം സെക്കന്റിൽ ഈ സൈക്കിൾ എണ്ണം f ആണ് അതിനാൽ ഇത് സൈക്കിൾറിവൊല്യൂഷൻ റിവൊല്യൂഷൻസെക്കന്റ് എന്ന് എഴുതാം നിങ്ങൾ ഇതുപോലെ എഴുതുകയാണെങ്കിൽ അത് സൈക്കിൾറിവൊല്യൂഷൻ എണ്ണമായിരിക്കും അതിനാൽ നിങ്ങൾക്ക് ഇത് സൈക്കിൾറിവൊല്യൂഷൻ റിവൊല്യൂഷൻസെക്കന്റ് എന്ന് എഴുതാം അതിനാൽ ആ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും അതിനാൽ അടിസ്ഥാനപരമായി അത് വെട്ടി പോവുകയും അത് സൈക്കിളുകളുടെ എണ്ണംസെക്കൻഡ് ആകുകയും ചെയ്യും അതിനാൽ അതുകൊണ്ടാണ് സൈക്കിളുകളുടെ എണ്ണം സെക്കന്റ് ഞങ്ങൾ എഴുതുന്നത് സൈക്കിളുകളുടെ എണ്ണം റിവൊല്യൂഷൻ റിവൊല്യൂഷൻ എണ്ണം സെക്കന്റ് അതിനാൽ സൈക്കിളുകളുടെ എണ്ണംസെക്കന്റ് പോളുകളുടെ ജോഡികളുടെ എണ്ണമായിരിക്കും അതിനാൽ നിങ്ങൾക്ക് 1 ജോഡി പോളുകൾ ഉണ്ടെങ്കിൽ അത് 1 സൈക്കിൾറിവൊല്യൂഷൻ ഉണ്ടാക്കും അതിനാൽ ഇവിടെ N പോളും S പോളും N S N S ആയി സ്ഥാപിച്ചിരിക്കുന്നു ഇത് ഒരു രൊറ്റഷൻ ചെയ്യും ഇത് N S പോളുകൾ മാത്രമാണെങ്കിൽ അത് 1 സൈക്കിൾസ്സെക്കന്റ്cyclessec ആണ് എന്നാൽ ഇത് 2 ജോഡി പോളുകളാണ് ഇത് 360 ഡിഗ്രി റൊട്ടേഷൻ ഉണ്ടാക്കുമെങ്കിലും വൈദ്യുതപരമായി അത് ചെയ്യില്ല അതിനാൽ വൈദ്യുതപരമായി ഇത് 2 സൈക്കിൾ ആയിരിക്കും അതിനാൽ ഇവിടെ അർത്ഥമാക്കുന്നത് p എന്നത് സൈക്കിളികളുടെ എണ്ണംറിവൊല്യൂഷൻ ആണ് അതിനാൽ നിങ്ങൾക്ക് 1 ജോഡി പോളുകളുണ്ടെങ്കിൽ അത് 1 സൈക്കിൾറിവൊല്യൂഷൻ സൃഷ്ടിക്കും കാരണം ഇത് വൈദ്യുത അളവാണ് ഞങ്ങൾ മെക്കാനിക്കൽ കാര്യം നോക്കുന്നില്ല ആ ഡയഗ്രാമിൽ നിങ്ങൾക്ക് 2 ജോഡി പോളുകളുണ്ടെന്ന് കരുതുക ഇത് മെക്കാനിക്കലി 360 ഡിഗ്രി കറങ്ങുമെങ്കിലും ഇത് അടിസ്ഥാനപരമായി 2 സൈക്കിളുകൾ പൂർത്തിയാക്കും കാരണം ഇത് N S N S എന്നിവ സ്വൈപ്പുചെയ്യും ഈ സ്വൈപ്പ് ബന്ധിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് സൈക്കിളുകളുടെ എണ്ണംസെക്കന്റ്cyclessec സൈക്കിൾസ്റിവൊല്യൂഷൻcyclesrevolutionറിവൊല്യൂഷൻസെക്കന്റ്revolutionsec അതിനാൽ ഇത് p n ആയിരിക്കും അതായത് പോൾ ന്റെ ജോഡികളുടെ എണ്ണത്തിന് തുല്യമാണ് p നിങ്ങൾക്ക് 4 ധ്രുവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 പോൾ ജോഡികളുണ്ട് അതിനാൽ ഈ സാഹചര്യത്തിൽ സൈക്കിൾസ്റിവൊല്യൂഷൻcyclesrevolution എന്നാൽ അത് 2 സൈക്കിൾസ്റിവൊല്യൂഷൻcyclesrevolution ഉണ്ടാക്കും എന്നാണ് മെക്കാനിക്കലി ഇത് 360 ഡിഗ്രി കറങ്ങുമെങ്കിലും വൈദ്യുതപരമായി ഇത് സെക്കൻഡിൽ 2 സൈക്കിൾ ഉണ്ടാക്കും കാരണം നിങ്ങൾക്ക് നാല് പൊള്ളുകളുണ്ട് അതായത് 2 പോൾ ജോഡി നിങ്ങൾ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ രണ്ടാം വർഷത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇലക്ട്രിക്കൽ മെഷീനുകൾ പഠിക്കും ആ സമയത്ത് നിങ്ങൾ കൂടുതൽ വിശദമായി പഠിക്കും എന്നാൽ ഈ കോഴ്സ് നിങ്ങൾക്ക് ചില അടിസ്ഥാന ആശയങ്ങൾ നൽകും അതിനാൽ ഇവിടെ പോൾ ജോഡികളുടെ എണ്ണം സൈക്കിൾസ്റിവൊല്യൂഷൻcyclesrevolution അതിനാൽ ഞാൻ 4 പോൾ ജനറേറ്ററിന്റെ ഒരു ചെറിയ ഉദാഹരണം എടുത്തിട്ടുണ്ട് ഫ്രിക്യുഎൻസി 50 ഹെർട്സ് ആണ് തുടർന്ന് n fp അതിനാൽ f np അതിനാൽ n fp f 50 ഹെർട്സ് കൂടാതെ ഇത് 4 പോൾ ജനറേറ്റർ ആയതിനാൽ p 2 കാരണം ഇത് നാല് പോൾ ആയതിനാൽ 2 ജോഡി എന്നാണ് അർത്ഥമാക്കുന്നത് അതിനർത്ഥം n 502 25 rps അതാണ് റിവൊല്യൂഷൻസെക്കന്റ്revolutionsec ഒരു മിനിറ്റ് 60 സെക്കൻഡ് ആണെങ്കിൽ ഇത് 60 കൊണ്ട് ഗുണിക്കുക അതിനാൽ അത് 1500 rpm ആയിരിക്കും റിവൊല്യൂഷൻമിനിറ്റ്revolutionminute അതിനാൽ അത് നിങ്ങളുടെ n ആയിരിക്കും എസി സർക്യൂട്ടുകൾ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ മീൻ വാല്യൂ അല്ലെങ്കിൽ E Em sin ω t അല്ലെങ്കിൽ i Im sin ω t എടുത്ത് നേരിട്ട് ആരംഭിക്കുന്നതിനുപകരം എങ്ങനെയാണ് EMF സൃഷ്ടിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ ധാരണ കുറച്ചുകൂടി മെച്ചപ്പെടുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ആശയം ഉപയോഗിച്ച് ഞാൻ അൽപ്പം ആരംഭിക്കുമെന്ന് ഞാൻ കരുതി അതിനാൽ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇത് ആരംഭിച്ചത് അപ്പോൾ ഞങ്ങൾ ആവറേജ് വാല്യൂക്കും മീൻ വാല്യൂക്കും വരും അതിനാൽ EMF എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നുവെന്നും ലോഡും മറ്റ് കാര്യങ്ങളും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും നൽകാനുള്ള ഒരു ആശയമാണിത് അത് ആദ്യ വർഷ തലത്തിൽ പരിധിക്കപ്പുറമാണ് അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ അതിനാൽ ഈ ഡയഗ്രാമിൽ ഞാൻ ലോഡിനെക്കുറിച്ചും അത് എങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നതിനെക്കുറിച്ചും ഒന്നും പരാമർശിച്ചില്ല ഈ ഘട്ടത്തിൽ ലോഡ് ആവശ്യമില്ല അതിനാൽ നമ്മൾ ഡിസി മെഷീൻ അല്ലെങ്കിൽ ഡിസി മോട്ടോർ പഠിക്കുമ്പോൾ മാത്രമേ എസി അളവ് സൃഷ്ടിക്കപ്പെടുന്നതിനാൽ ഇത് എങ്ങനെ ഡിസിയിലേക്ക് പരിവർത്തനം ചെയ്യൂ എന്ന് ഞാൻ നിങ്ങളോട് പറയും അതിനാൽ എസി സിംഗിൾ ഫേസ് സർക്യൂട്ട് ആരംഭിക്കാൻ ഇത് അടിസ്ഥാനമായിരിക്കുമെന്ന് ഞാൻ കരുതി E Em sinωt എടുക്കുന്നതിനുപകരം ഇത് നിങ്ങളുടെ ധാരണയ്ക്കായി മാത്രമാണ് ഞാൻ എടുത്തത് ഇപ്പോൾ നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറന്റ് ന്റെ ആവറേജ് വാല്യൂക് വരും ഇതിനെ മീൻ വാല്യൂ എന്നും വിളിക്കുന്നു കൂടാതെ ആർഎംഎസ് മൂല്യം ഇതിനെ എഫക്റ്റീവ് വാല്യൂ എന്നും വിളിക്കുന്നു അതിനാൽ ആൾട്ടർനേറ്റിംഗ് കറന്റ് sin ω t എന്നത് ഒരു സിമെട്രിക്കൽ വാവേഫോം ആണ് അത് ഒപ്പം വശവും രണ്ടും ഒന്നുതന്നെയാണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വശവും വശവും ഒരേ സമയ ഇടവേളയിൽ ഒന്നുതന്നെയാണ് ഇപ്പോൾ നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറന്റ് ന്റെ ആവറേജ് വാല്യൂക് വരും ഇതിനെ മീൻ വാല്യൂ എന്നും വിളിക്കുന്നു കൂടാതെ ആർഎംഎസ് മൂല്യം ഇതിനെ എഫക്റ്റീവ് വാല്യൂ എന്നും വിളിക്കുന്നു ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്തതെന്ന് മനസിലാക്കാൻ ഇവിടെ നമ്മൾ ഒരു സിനസൊഇടല് വാവേഫോം എടുത്തിട്ടില്ല ഞങ്ങൾ ഒരു സിമെട്രിക്കൽ വാവേഫോം രൂപമെടുത്തു നിങ്ങൾ ഈ വശത്തേക്കും ഈ വശത്തേക്കും നോക്കുകയാണെങ്കിൽ അത് സിമെട്രിക്കൽ ആണ് ഈ ടൈം പീരീഡ് T ആണ് ഈ സമയം T2 ആണ് നിങ്ങൾ സെക്കൻഡ്സ് ൽ എടുക്കുകയാണെങ്കിൽ ഇത് 1 2 3 4 5 6 ആണ് ഇപ്പോൾ ഇവിടെ ഓരോ നിമിഷവും സാമ്പിൾ ഇൻസ്റ്റന്റ് ആണ് അതിനാൽ ഈ ഘട്ടത്തിൽ ഇത് i1 ആണ് ഇത് i2 ആണ് ഇത് i3 i4 i5 തുടങ്ങിയവ ഓരോ സാമ്പിൾ ഇൻസ്റ്റന്റ് ഉം അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുമ്പോഴെല്ലാം i1 i2 i3 പോലെ T2 വരെ ഇൻസ്റ്റന്റ് ഉണ്ടാകും ഇപ്പോൾ ഇതാണ് നിലവിലെ കറന്റ് വാവേഫോം നമ്മൾ പിന്നീട് ഇതിലേക്ക് വരും അതിനാൽ ഇതാണ് ഇപ്പോഴത്തെ കറന്റ് വാവേഫോം അതിനാൽ ഹാഫ് സൈക്കിൾ ലെ ആവറേജ് വാല്യൂ I I1 I2 I3 In n ആണ് ഈ ടൈം ഇന്റർവെൽ N വരെ നിങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ ആവറേജ് വാല്യൂ ആണ് അല്ലെങ്കിൽ വളവിന് കീഴിലുള്ള ഏരിയ കണ്ടെത്തുന്നതിലൂടെ നിങ്ങൾക്ക് ആവറേജ് വാല്യൂ കണ്ടെത്താനാകും പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡ് എന്നിവ സിമെട്രിക്കൽ ആയതിനാൽ പകുതി സൈക്കിളിൽ മാത്രമേ നമ്മൾ കണ്ടെത്തുകയുള്ളൂ ഫുൾ സൈക്കിൾ ന്റെ ആവറേജ് വാല്യൂ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് 0 ആയിരിക്കും കാരണം ഇത് ഒരു പോസിറ്റീവ് ഏരിയയും ഇത് നെഗറ്റീവ് ഏരിയയുമാണ് അത് 0 ആകും സിമെട്രിക്കൽ വാവേഫോംനായി പകുതി സൈക്കിൾ മാത്രമാണ് നമ്മൾ കണ്ടെത്തുന്നത് അതിനാൽ T2 വരെ മാത്രം കാരണം ഫുൾ സൈക്കിൾ ന് ഇത് 0 ആയിരിക്കും അതിനാൽ അത് താൽപ്പര്യമില്ല അതിനാൽ ഒരു ഹാഫ് സൈക്കിൾ ലെ ആവറേജ് വാല്യൂ I1 I2 I3 Inn അല്ലെങ്കിൽ ഹാഫ് സൈക്കിൾ മുകളിലുള്ള പ്രദേശംഹാഫ് സൈക്കിൾ ന്റെ ബൈസ് ന്റെ നീളം ഹാഫ് സൈക്കിൾ ന്റെ ബൈസ് ന്റെ നീളം T2 ആണ് അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ അതിനാൽ ഇത് എന്റെ ടി2 ആണ് ഇത് ടി ആണ് ഇതാണ് ബൈസ് ടി2 അതിനാൽ അതായത് ഹാഫ് സൈക്കിൾ ന്റെ ബൈസ് ന്റെ നീളം കൊണ്ട് അതിനെ ഹരിച്ചിരിക്കുന്നു ഈ ഈക്വാഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുക അതിനാൽ നിങ്ങൾക്ക് Idt 0 മുതൽ T2 വരെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും ഇത് ഹാഫ് സൈക്കിൾ ന്റെ ബൈസ് ന്റെ നീളം കൊണ്ട് ഹരിക്കുന്നു അതിനാൽ ഇത് ടി2 ആണ് അതിനാൽ 1T2 അതിനാൽ ഇത് ആവറേജ് വാല്യൂ ആണ് ഇപ്പോൾ അടുത്തതായി നമ്മൾ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ അല്ലെങ്കിൽ RMS വാല്യൂ അല്ലെങ്കിൽ എഫക്റ്റീവ് വാല്യൂവിലേക്ക് വരേണ്ടതുണ്ട് ഞാൻ അത് മായ്ക്കട്ടെ അതിനാൽ ഈ സാഹചര്യത്തിൽ ചെയ്തിരിക്കുന്നത് ഇത് i2 പ്ലോട്ട് ആണെന്ന് കരുതുക അതിനാൽ ഇത് T2 ആണ് ഇത് T ആണ് ഇതാണ് ഒറിജിൻ ഇത് i ഇത് i2 ഇത് i2 പ്ലോട്ട് നിങ്ങൾ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഈ ഏരിയ പോസിറ്റീവ് വശമാണ് ഇത് നെഗറ്റീവ് ആയിരുന്നു എന്നാൽ ഇവിടെ നമ്മൾ സ്ക്വയർ എടുക്കും ഇതുപോലെ ആയിരിക്കും അതിനാൽ ഈ പ്ലോട്ടിൽ നിന്ന് RMS മൂല്യം കണ്ടെത്താൻ പകുതി സൈക്കിളും ഫുൾ സൈക്കിളും ഒരേ ഫലം നൽകും കാരണം ഇതിന്റെ ഏരിയയും ഇതിന്റെ ഏരിയയും തുല്യമാണ് അതിനാൽ എന്തായാലും ഞങ്ങൾ ഹാഫ് സൈക്കിൾ മാത്രമേ പരിഗണിക്കൂ കാരണം നിങ്ങൾ 0 മുതൽ T2 അല്ലെങ്കിൽ 0 മുതൽ T2 വരെ എടുത്താലും രണ്ടും ഒന്ന് തന്നെ ആണ് അതിനാൽ അർത്ഥം ഒന്നുതന്നെയാണ് അതിനാൽ നമ്മൾ ഹാഫ് സൈക്കിൾ മാത്രമേ പരിഗണിക്കൂ നമ്മൾ RMS മൂല്യത്തിനായി ഫുൾ സൈക്കിൾ എടുക്കുകയാണെങ്കിൽ അത് അതേ ഫലം നൽകും അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ അതിനാൽ ഈ സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് അതുപോലെ 1 2 3 4 എന്നിവയ്ക്കായി നമുക്ക് i12 i22 i32 മുതലായവ കണക്കാക്കാം ഇവിടെ അത് i1 i2 i3 എന്നാൽ ഇവിടെ അത് സ്ക്വരെ ആണ് അതിനാൽ ഞങ്ങൾക്ക് T2 വരെയുള്ള മൂല്യം ലഭിക്കും ഇത് T ആണ് അതിനാൽ T യുടെ അടിസ്ഥാനത്തിൽ അവയിലേക്ക് പോകുന്നതിനുമുമ്പ് നിങ്ങൾക്ക് അത്തരം N മൂല്യം ഉണ്ടെങ്കിൽ അപ്പോൾ അത് ആവറേജ് ആവും RMS മൂല്യം ഹീറ്റിംഗ് എഫ്ഫക്റ്റ് നെ അഥവാ i2 നെ ആശ്രയിച്ചിരിക്കുന്നു കാരണം ഡിസി സർക്യൂട്ടിൽ വൈദ്യുതി നഷ്ടം i 2 r ന് തുല്യമാണെന്ന് നമ്മൾ പഠിച്ചു അതിനാൽ RMS മൂല്യം ഹീറ്റിംഗ് എഫ്ഫക്റ്റ് നെ അഥവാ i2 നെ ആശ്രയിച്ചിരിക്കുന്നു കറന്റിന്റെ അടിസ്ഥാനപരമായി നമ്മൾ i2 എടുക്കുമ്പോൾ ഉടൻ അത് ഹീറ്റിംഗ് എഫ്ഫക്റ്റ് നെ ആശ്രയിച്ചിരിക്കുന്നു കാരണം ഡിസി സർക്യൂട്ടിൽ i2r നഷ്ടം നമ്മൾ കണ്ടു എസി സർക്യൂട്ടുകൾക്കും ഇത് ബാധകമാണ് നമ്മൾ അതിലേക്ക് വരും അതിനാൽ ആവറേജ് ഹീറ്റിംഗ് എഫ്ഫക്റ്റ് i12 i22 in2 n ന് ആനുപാതികമാണ് ആവറേജ് ഹീറ്റിംഗ് എഫ്ഫക്റ്റ് i12 i22 in2 n ന് ആനുപാതികമാണ് അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ അതിനാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ rms മൂല്യം ലഭിക്കും ആൾട്ടർനേറ്റ കറന്റ് കാരണം ഒരു റെസിസ്റ്റർ ൽ ഉണ്ടാവുന്ന ഹീറ്റിംഗ് എഫ്ഫക്റ്റ് i എന്ന ഡയറക്റ്റ് കറന്റ് ഉം ഉണ്ടാക്കും എന്ന് വിചാരിക്കുക അതിനാൽ ആൾട്ടർനേറ്റ കറന്റ് കാരണം ഒരു റെസിസ്റ്റർ ൽ ഉണ്ടാവുന്ന ഹീറ്റിംഗ് എഫ്ഫക്റ്റ് i എന്ന ഡയറക്റ്റ് കറന്റ് ഉം ഉണ്ടാക്കും എന്ന് അനുമാനിക്കണം അതിനാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് I2 i12 i22 in2 n അല്ലെങ്കിൽ I √i12 i22 in2 n ഇത് മൊത്തം സ്ക്വാർ റൂട്ട് ആണ് I2 കർവിന് കീഴിലുള്ള പ്രദേശം T2 സമയം വരെയുള്ള കണ്ടെത്തുന്നതിലൂടെയും ഇത് ലഭിക്കും നമ്മൾ പകുതി സൈക്കിൾ മാത്രമേ എടുക്കൂ അതിനാൽ ഇത് √I2 കെർവ് ന് താഴെ ഉള്ള ഏരിയബൈസ് ന്റെ ലെങ്ത് അതിനാൽ ഇത് √I2 കെർവ് ന് താഴെ ഉള്ള ഏരിയബൈസ് ന്റെ ലെങ്ത് അതായത് T2 അതിനാൽ ഇത് T2 മൈനസ് 0 ആണ് അതിനാൽ ഹാഫ് സൈക്കിൾ ന്റെ ബൈസ് ന്റെ നീളം ഫുൾ സൈക്കിൾ ഉം ഇത് ഒരേ ഫലം നൽകും കാരണം ഇത് സിമെട്രിക്കൽ ആണ് അതിനാൽ ഇതിന് ഒരേ ഏരിയ ആണ് അതിനാൽ ഒരു ഹാഫ് സൈക്കിളിൽ ഇത് 0 മുതൽ T2 വരെ i2 dt എഴുതാം ഇത് T2 ആണ് ഇത് 1T2 ആയിരിക്കും അതിനാൽ ഈ വിധത്തിൽ നിങ്ങൾക്ക് r m s മൂല്യം അല്ലെങ്കിൽ എഫക്റ്റീവ് വാല്യൂ എഴുതാം ആവറേജ് വാല്യൂ ചിലപ്പോൾ നമ്മൾ മീൻ വാല്യൂ എന്ന് വിളിക്കുന്നു അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ അതായത് മീൻ വാല്യൂ ന് നമ്മൾ നേരിട്ട് പകുതി സൈക്കിൾ എടുക്കുന്നു RMS വാല്യൂ ന് ആദ്യം നമ്മൾ അതിനെ സ്ക്വയർ ചെയ്യുന്നു അതിനാൽ ഹീറ്റിംഗ് എഫ്ഫക്റ്റ് i2 ന് അനുസരിച്ച ഇരിക്കും അതിനാൽ ആവറേജ് ഹീറ്റിംഗ് എഫ്ഫക്റ്റ് ഇതിന് ആനുപാതികമാണ് അതിനാൽ i2 ഇതുപോലെ എഴുതുന്നു I2 i12 i22 in2 n അല്ലെങ്കിൽ I √i12 i22 in2 n ഇത് n ആണ് അതിനാൽ ഇത് അടിസ്ഥാനപരമായി 0 മുതൽ T2 I2 d t അപ്പോൾ നമ്മൾ സിനസൊഇടല് കറന്റ് ന്റെ RMS വാല്യൂ ഉം ആവറേജ് വാല്യൂ ഉം കണ്ടു